ഇതുവരെ നമ്മൾ ഒരേ തരത്തിലുള്ള ഘടകങ്ങളെ സീരീസ് അല്ലെങ്കിൽ സമാന്തരമായി പരിശോധിച്ചു അതായത് റെസിസ്റ്ററിന്റെ സീരീസ് കോമ്പിനേഷൻ അല്ലെങ്കിൽ വോൾട്ടേജ് സ്രോതസ്സുകളുടെ സീരീസ് കോമ്പിനേഷൻ എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് സമാന ഘടകങ്ങളുടെ ശ്രേണി അല്ലെങ്കിൽ സമാന്തര സംയോജനമാണ് എല്ലാ കോമ്പിനേഷനുകൾക്കും ഞാൻ ഇത് ചെയ്യില്ല പക്ഷേ രസകരമായ ചില ഗുണങ്ങളുള്ള കോമ്പിനേഷനുകൾക്ക് നമ്മൾ ഇത് ചെയ്യും അതിനാൽ ആദ്യം നമുക്ക് ഒരു ഘടകത്തിന്റെയും കറണ്ട് ഉറവിടത്തിന്റെയും സീരീസ് കോമ്പിനേഷൻ നോക്കാം അത് എനിക്ക് ഏതെങ്കിലും ഘടകമുണ്ടാകാം അത് ഒരു റെസിസ്റ്റർ ഇൻഡക്റ്റർ വോൾട്ടേജ് ഉറവിടങ്ങൾ ആകാം അതിനൊപ്പം നമുക്ക് ഒരു നിശ്ചിത കറണ്ട് ഉറവിടമുണ്ട് I ഇപ്പോൾ ഇത് ഞാൻ പരിഗണിക്കുന്ന കോമ്പിനേഷനാണ് അതിനാൽ നിങ്ങൾ ഇത് ചില സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിക്കുകയാണെങ്കിൽ കിർചോഫിന്റെ കറണ്ട് നിയമം കാരണം മുഴുവൻ സർക്യൂട്ടിലൂടെയും ഇതുപോലെ ഒഴുകുന്ന വൈദ്യുതധാര I ന് തുല്യമായിരിക്കണമെന്ന് നമുക്ക്ക്കറിയാം അതിനാൽ ഈ പ്രധാന സ്ലോട്ട് ഏതെങ്കിലും ഘടകത്തിന്റെയും കറണ്ട് ഉറവിടത്തിന്റെയും സീരീസ് കോമ്പിനേഷൻ കറണ്ട് ഉറവിടത്തിന് തുല്യമാണ് അതിനാൽ ഈ കറണ്ട് ഉറവിടത്തിന് ഒരു മൂല്യം I ഉണ്ട് പിന്നെ വ്യക്തമായും അതിനർത്ഥം ഒരു കറന്റ് I ഇവിടെ നിന്ന് അവിടേക്ക് ഒഴുകും എന്നാണ് മാത്രമല്ല അത് ഈ കറണ്ട് സോഴ്സ് നു കുറുകെ ഉള്ള വോൾടേജ് നെ ആശ്രയിക്കുന്നില്ല കൂടാതെ ഈ മുഴുവൻ കോമ്പിനേഷൻ നു കുറുകെ ഉള്ള വോൾടേജ് നേം ആശ്രയിക്കുന്നില്ല കാരണം ഈ മുഴുവൻ കോംബിനേഷന് കുറുകെ വരുന്ന വോൾടേജ് മറ്റൊന്നും അല്ല കറണ്ട് സോഴ്സ് നു കുറുകെ ഉള്ള വോൾടേജ് തന്നെ ആണ് അത് എന്തും ആകാം കൂടാതെ ഈ ഘടകത്തിനു കുറുകെ ഉള്ള വോൾടേജ് ഉം അതിനാൽ ഇതിന്റെ ഉത്തരവും ഒരു കറണ്ട് സോഴ്സ് ആണ് അത് ഈ ദിശയിൽ കറണ്ട് ഒഴുകുന്നതിനു കാരണമാകുന്നു അവിടുത്തെ വോൾടേജ് ഇനെ പരിഗണിക്കാതെ തന്നെ അതിനാൽ കറണ്ട് ഉറവിടത്തിന്റെയും വോൾട്ടേജ് ഉറവിടം ഉൾപ്പെടെയുള്ള ഏത് ഘടകത്തിന്റെയും സീരീസ് സംയോജനം കറണ്ട് ഉറവിടമാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു വോൾട്ടേജ് ഉറവിടവും ശ്രേണിയിൽ കറണ്ട് ഉറവിടവും ഉണ്ടെങ്കിൽ ഇതിനർത്ഥം അതിനാൽ ഇതിന് കുറച്ച് മൂല്യം Vo ഉണ്ടെന്നും ഇതിന് Io മൂല്യമുണ്ടെന്നും നമുക്ക് പറയാം എല്ലാം കറണ്ട് I ഉറവിടത്തിന് തുല്യമാണ് ഇത് തികച്ചും നിയമപരമായ കണക്ഷനാണ് കറണ്ട് ഉറവിടത്തിനു കുറുകെ ഉള്ള വോൾട്ടേജ് എന്തും ആകാം ഒരു വോൾട്ടേജ് ഉറവിടത്തിലൂടെയുള്ള വൈദ്യുതധാര Io ആയിരിക്കും അതുപോലെ ഒരു വോൾട്ടേജ് ഉറവിടത്തിന്റെയും ഒരു ഘടകത്തിന്റെയും സമാന്തര സംയോജനവും നമ്മൾ പരിഗണിക്കും ഈ വോൾട്ടേജ് ഉറവിടത്തിന് Vo എന്ന മൂല്യമുണ്ടെന്ന് പറയട്ടെ അതിലൂടെ ഏത് ഘടകത്തെയും ബന്ധിപ്പിക്കാൻ കഴിയും ഇതിനു കുറുകെ നമുക്ക് Vo ന് തുല്യമായ ഒരു വോൾട്ടേജ് ഉണ്ടായിരിക്കുമെന്ന് നമ്മുക്കറിയാം അതിലൂടെ ഏത് വൈദ്യുത പ്രവാഹം നടക്കുന്നുവെന്നത് പരിഗണിക്കാതെ തന്നെ ആയിരിക്കും കാരണം വോൾട്ടേജ് ഉറവിടത്തിലൂടെയുള്ള വൈദ്യുതധാര എന്തും ആകാം ഈ വൈദ്യുതധാര വോൾട്ടേജ് സ്രോതസ്സിലൂടെയുള്ള വൈദ്യുതധാരയും ഘടകത്തിലൂടെയുള്ള വൈദ്യുതധാരയുമല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഒരു വോൾട്ടേജ് ഉറവിടത്തിന്റെയും ഒരു ഘടകത്തിന്റെയും സമാന്തര സംയോജനം ഒരേ വോൾട്ടേജ് ഉറവിടത്തിന് തുല്യമാണ് Vo അതിനാൽ ഈ ഘടകം എന്തും ആകാം അത് ഒരു റെസിസ്റ്ററാകാം അത് ഒരു ഇൻഡക്റ്റർ ആകാം അത് കപ്പാസിറ്ററാകാം ഇത് കറണ്ട് ഉറവിടമാകാം അതിനാൽ സമാന്തര സംയോജനം ഒരു വോൾട്ടേജ് ഉറവിടത്തിന് തുല്യമാണ്